ടു പോർട്ട് ആംപ്ലിഫയറിന്റെ ഗെയിൻ പരമാവധിയാക്കുന്നതിന് ചെറിയ സിഗ്നൽ y പാരാമീറ്ററുകളിലെ നിയന്ത്രണങ്ങൾ ഞങ്ങൾ വിലയിരുത്തി ഇനി നമുക്ക് അതിന്റെ പിന്നിൽ കുറച്ചുകൂടി അവബോധം നേടാം അത് മാറുന്നതുപോലെ ഇത് വളരെ ലളിതമാണ് ഇതിനായി ചെറിയ സിഗ്നൽ ടു പോർട്ടിന്റെ ടു പോർട്ടിന് തുല്യമായ സർക്യൂട്ട് ഞങ്ങൾ ഉപയോഗിക്കും ചെറിയ സിഗ്നൽ ടു പോർട്ടിന് തുല്യമായ സർക്യൂട്ട് ഒരു ചാലകത y11 ഒരു നിയന്ത്രണ സോഴ്സ് y12 v2 മറ്റൊരു നിയന്ത്രണ സോഴ്സ് y21 v1 ഒരു കണ്ടക്ടൻസ് y22 എന്നിവ ഉൾക്കൊള്ളുന്നുവെന്ന് നമുക്കറിയാം ഇവിടെ ഈ വോൾട്ടേജ് v1 ആണ് ഈ വോൾട്ടേജ് v2 ആണ് ഇവ തീർച്ചയായും i1 i2 എന്നീ പോർട്ട് കറന്റുകളാണ് ഈ സർക്യൂട്ട് ടു പോർട്ട് നെറ്റ്വർക്കിന്റെ y പാരാമീറ്റർ വിവരണവുമായി പൊരുത്തപ്പെടുന്നതാണ് ഇതിലേക്ക് ഞങ്ങൾ ഒരു സോഴ്സ് VS ചേർക്കുന്നു അതിന്റെ സോഴ്സ് റെസിസ്റ്റൻസ് RS ആണ് അതിനാൽ സോഴ്സ് കണ്ടക്ടൻസ് GS ആണ് ഞങ്ങൾക്ക് ഒരു ലോഡ് റെസിസ്റ്റൻസ് RL അല്ലെങ്കിൽ GL ന്റെ ലോഡ് കണ്ടക്ടൻസ് ഉണ്ട് ഇപ്പോൾ ഒന്നാമതായി y21 എന്നത് ഫോർവേഡ് പാരാമീറ്ററാണ് അത് v1 എടുത്ത് പോർട്ട് രണ്ടിലേക്ക് ഒരു കറന്റ് ഡ്രൈവ് ചെയ്യുന്നു അതിനാൽ y21 ആ ദിശയിലേക്കും y12 വിപരീത ദിശയിലേക്കും സിഗ്നലുകൾ കൈമാറുന്നു അത് v2 എടുക്കുകയും പോർട്ട് ഒന്നിലേക്ക് കറന്റ് വലിച്ചെടുക്കുകയും ചെയ്യുന്നു അതുവഴി y12 ആണ് റിവേഴ്സ് പാരാമീറ്റർ അസ്ഥിരത ഒഴിവാക്കുന്നതിനായി റിവേഴ്സ് പാരാമീറ്റർ പൂജ്യമാക്കണമെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് സോഴ്സിന്റെയും ലോഡിന്റെയും ചില കോമ്പിനേഷനുകൾ ഇംപെൻഡൻസ് ഫീഡ്ബാക്ക് പാരാമീറ്ററിന്റെ ശരിയായ മൂല്യം എന്നിവ ഉപയോഗിച്ച് ഇത് സാധ്യമാണ് അസ്ഥിരത ഉണ്ടാകാം പക്ഷേ നിങ്ങൾ ഈ വിപരീതം പൂജ്യമായിരിക്കട്ടെ അപ്പോൾ പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ കണ്ട അത്തരമൊരു സാധ്യതയില്ല അതിനാൽ ഞങ്ങൾക്ക് പൂജ്യത്തിന് തുല്യമായ y12 വേണം നിരുപാധികമായ സ്ഥിരതയ്ക്കായി ഞങ്ങൾ ഇവിടെ സ്ഥിരതയെ പ്രതിലോമപരമായി നിർവചിച്ചിട്ടില്ല ഞങ്ങൾ അത് ചെയ്യില്ല എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ പദപ്രയോഗത്തിൽ നിന്ന് ഗെയിൻ അനന്തതയിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതായത് അസ്ഥിരത അല്ലെങ്കിൽ ഇൻപുട്ട് ഇല്ലാതെ ഔട്ട്പുട്ട് അതിനാൽ y12 പൂജ്യമായാൽ നമുക്ക് ഈ നിയന്ത്രണ ഉറവിടം നീക്കംചെയ്യാം അതിനാൽ നമുക്ക് അവശേഷിക്കുന്നത് ഈ വശത്ത് ഒരു വോൾട്ടേജ് ഡിവൈഡറും ഫലപ്രദമായി ഈ വശത്ത് ഒരു കറന്റ് ഡിവൈഡറും മാത്രമാണ് ഓർക്കുക ടു പോർട്ട് ഇത് ഈ V1 നോടുള്ള പ്രതികരണമാണ് ഇവിടെ v1 എന്നത് VS ആണ് അത് ഈ റെസിസ്റ്റീവ് ഡിവൈഡർ കൊണ്ട് ഹരിച്ചിരിക്കുന്നു ഇപ്പോൾ പൂജ്യത്തിന് തുല്യമായ y11 എന്നതിന്റെ അർത്ഥമെന്താണ് അതിനർത്ഥം ഇൻപുട്ട് ഓപ്പൺ സർക്യൂട്ട് ആണ് ഇതിനർത്ഥം വോൾട്ടേജ് ഡിവിഷൻ ഇല്ല എന്നാണ് അതായത് ഈ റെസിസ്റ്റൻസ് അനന്തമായ y11 ആണെങ്കിൽ കണ്ടക്ടൻസാണ് അതിനാൽ ഇത് പൂജ്യമാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് അനന്തമായതിനാൽ ഈ VS എല്ലാം പോർട്ട് ഒന്നിലുടനീളം ദൃശ്യമാകുന്നു സാമാന്യബുദ്ധി ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉണ്ടെങ്കിൽ ഈ സോഴ്സ് വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സോഴ്സ് വോൾട്ടേജും ഇവിടെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ y21 ഈ നിയന്ത്രണ സോഴ്സ് v1 ന്റെ മൂല്യത്തെ ആശ്രയിച്ച് കുറച്ച് കറന്റ് ഉത്പാദിപ്പിക്കുന്നു ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം y22 ലേക്ക് പോകുന്നു അതിന്റെ ഒരു ഭാഗം RL ലേക്ക് പോകുന്നു അതിനാൽ കറന്റ് ഡിവിഷൻ ഉണ്ട് അതിനാൽ ഈ കറന്റ്ലെ വിഭജനം ഒഴിവാക്കാൻ ഇവയെല്ലാം ലോഡിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് കാരണം ഇതിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല ഇതിലേക്ക് പോകുന്ന കറന്റ് പരമാവധി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുവഴി RL ലേക്ക് വിതരണം ചെയ്യുന്ന പവർ അതിനാൽ ഈ കറന്റുകളെല്ലാം അതിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതും ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കണം അത് y22 പൂജ്യമായിരിക്കണം y22 പൂജ്യമാണ് അതിനാൽ വീണ്ടും ഒരു ഓപ്പൺ സർക്യൂട്ട് പോർട്ട് രണ്ടിലേക്ക് നോക്കുക അതിനാൽ കറന്റ്ലെ ഡിവിഷൻ ഇല്ല എന്നാണ് ഇതിനർത്ഥം കറന്റിലെ വിഭജനം ഇല്ലെങ്കിൽ ഇത് y22 നും RL നും ഇടയിലാണ് അതിനാൽ അതിൽ അത്രയേയുള്ളൂ അതാണ് ഈ നിയന്ത്രണങ്ങൾ അർത്ഥമാക്കുന്നത് എല്ലാ സോഴ്സ് വോൾട്ടേജും പോർട്ട് ഒന്നിലുടനീളം ദൃശ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ കൺട്രോൾ സോഴ്സ് y21 V1 ൽ നിന്നുള്ള എല്ലാ കറന്റും ലോഡിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ നിയന്ത്രണങ്ങളുടെ വളരെ ലളിതമായ അവബോധജന്യമായ വിശദീകരണമാണിത് ഒടുവിൽ y21 കഴിയുന്നത്ര വലുതായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അത് വ്യക്തമാണ് പോർട്ട് ഒന്നിലെ വോൾട്ടേജിനോട് ടു പോർട്ട് എത്രമാത്രം പ്രതികരിക്കുന്നു എന്നതാണ് യഥാർത്ഥ ഗെയിൻ നിങ്ങൾ y21 വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ RL ലേക്ക് കൂടുതൽ കൂടുതൽ കറന്റ് പമ്പ് ചെയ്യപ്പെടുകയും നിങ്ങൾ പരമാവധി ഊർജ്ജം നേടുകയും ചെയ്യും ഗെയിനിനുവേണ്ടി ഞങ്ങൾ പദപ്രയോഗം എഴുതുകയും നിയന്ത്രണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു നിയന്ത്രണൾ ചില നിഗൂഢമായ കാര്യങ്ങളല്ലെന്ന് കണ്ടെത്തി അതിനാൽ അതിന് വളരെ വ്യക്തമായ ഒരു വിശദീകരണമുണ്ട് അത് ഇതാണ്